പ്രൊഫസർ ഹലോ എല്ലാവർക്കും സ്വാഗതം ഡിസൈൻ തിങ്കിംഗ് ഓൺലൈൻ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഇതിൻറെ സിദ്ധാന്തങ്ങൾ കേട്ട് മനസ്സിലാക്കി കാണും ഡിസൈൻ തിങ്കിംഗ്പറ്റിയുള്ള കഥകൾ കേട്ടുകാണും ഇവിടെ ഡിസൈൻ തിങ്കിംഗ് എന്നതിനെപ്പറ്റി മനസ്സിലാക്കാൻ മറ്റൊരു രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഡിസൈൻ തിങ്കിംഗ് പരിചയമുള്ള ചില ആളുകൾ എൻറെ കൂടെ ഉണ്ട് യഥാർത്ഥ ജീവിതത്തിലെവ്യത്യസ്തങ്ങളായട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരിചയമുണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുക ഡിസൈൻ തിങ്കിംഗ്ഉപയോഗിച്ച് ഒന്നാമത്തെ സ്റ്റേജ് ആണ് സമാനുഭാവം നേടുക സമാനുഭാവം നേടുക എന്നുള്ളത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ആണ് കൂടെ എൻറെ നാല് കൂട്ടുകാരുണ്ട് പഴയ സ്റ്റുഡൻസ് ആണ് ഓരോരുത്തരും അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു ഞാൻ ആശയങ്ങളെ വിശകലനം ചെയ്യുന്നു നമ്മൾ സംസാരിച്ചതാണ് കസ്റ്റമർ ജേർണി മാപ്പിംഗ് എന്നതിനെപ്പറ്റി മറ്റുള്ളവരുടെ അനുഭവം നിങ്ങളുടെ കണ്ണിലൂടെ കാണുക അതാണ് കസ്റ്റമർ ജേർണി മാപ്പിംഗ് ഞാൻ ആരംഭിക്കുന്നതിന് മുന്നേ ഒന്നുകൂടി പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെstep ഒരു വ്യക്തിയെ പറ്റി മനസ്സിലാക്കുക എന്നതാണ് ഒരു വ്യക്തിയെ പറ്റി മനസ്സിലാക്കുമ്പോൾ ആദ്യ കാര്യം വ്യക്തിയുടെ വയസ്സാണ് രണ്ടാമത്തെ കാര്യം ആ വ്യക്തി താമസിക്കുന്ന സ്ഥലത്തിൻറെ ഭൌമശാസ്ത്രം ആണ് മൂന്നാമത്തെ കാര്യം തമാശയ്ക്ക് എങ്കിൽ പോലും ആ വ്യക്തിയുടെ പേരാണ് വ്യക്തി ആണോ പെണ്ണോ എന്നുള്ള കാര്യം ഉള്ള പ്രധാനപ്പെട്ട ആണ് വ്യക്തിയെ മനസ്സിലാക്കാൻ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങൾ വളരെ ലളിതമാണ് നിങ്ങൾ ഏത് ആക്ടിവിറ്റി സംബന്ധിച്ചാണ് ആലോചിക്കുന്നത് ഈ വ്യക്തി ഒരു ആക്ടിവിറ്റിക്ക് മുമ്പ് എന്തൊക്കെ ചെയ്യുന്നു ആക്ടിവിറ്റിയുടെ ഇടയിൽഎന്തൊക്കെ ചെയ്യുന്നു ആക്ടിവിറ്റിക്ക്ശേഷംഎന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ പറ്റി ചിന്തിക്കേണ്ടി വരും ഒരു ആക്ടിവിറ്റിക്ക് മുമ്പ്ചുരുങ്ങിയത് 3 സ്റ്റെപ്പ് എങ്കിലും ആലോചിക്കുക ആക്ടിവിറ്റിയുടെ ഇടയിൽ 3 സ്റ്റെപ്പ് എങ്കിലും ആലോചിക്കുക ആക്ടിവിറ്റിക്ക്ശേഷം 3 സ്റ്റെപ്പ് എങ്കിലും ആലോചിക്കുക അങ്ങനെ ആകെ 9 വേണം നമുക്ക് sticky notesഉപയോഗിക്കാം ഞാൻ നിങ്ങളെ sticky notesകാണിക്കാം നമുക്കൊരു കസ്റ്റമർ ജേർണി മാപ്പിംഗ് ഉണ്ടാക്കാവുന്നതാണ് സിദ്ധാർത്ഥ് മാധുരി സിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ പരിഗണിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വം തിരഞ്ഞെടുക്കുന്നു എന്തെല്ലാം ആക്ടിവിറ്റീസ്ആണ് കുട്ടി സ്കൂളിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു ആക്ടിവിറ്റീസ്ചെയ്യുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നു നിതിൻ കുര്യൻ സിഒഒ നോയിൻ ഇലക്ട്രോണിക്സ് ആ ശരി നമുക്ക് ആ കുട്ടിക്ക് ഒരു പേരിടാം നമുക്ക് അവനെ സാം എന്നു വിളിക്കാം സിദ്ധാർത്ഥ് മാധുരി സിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് നമുക്ക് അവനെ സാം എന്ന് വിളിക്കാവുന്നതാണ് നിതിൻ കുര്യൻ സിഒഒ നോയിൻ ഇലക്ട്രോണിക്സ് സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് അവന് വയസ്സ് 14 അല്ലെങ്കിൽ 15 സിദ്ധാർത്ഥ് മാധുരി സിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് സമ്മതിച്ചിരിക്കുന്നു നിതിൻ കുര്യൻ സിഒഒ നോയിൻ ഇലക്ട്രോണിക്സ് അവൻറെ പേര് സാം 14വയസ് പൂനെ എന്ന സ്ഥലത്ത്ഒരു ഇൻറർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നു ഇനി നമുക്ക് അവരുടെ മറ്റുകാര്യങ്ങളെ പറ്റി ചിന്തിക്കാം സ്കൂളിൽ എന്ത് പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ആണ് സാം ചെയ്യുവാൻ പോകുന്നത് സിദ്ധാർത്ഥ് മാധുരി സിഇഒ നോയിൻ ഇലക്ട്രോണിക്സ് ആക്ടിവിറ്റി ചിന്തിക്കുന്നതിനു മുന്നേ അവൻറെ വ്യത്യസ്ത വശങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം Nithin Kurian COO Knoin Electronics Ok Siddharth Maturi CEO Knoin Electronics നമ്മുടെ അടുത്ത വ്യക്തിത്വമാണ് ഇനി നമുക്ക് ആക്ടിവിറ്റിലേക്ക് പോകാവുന്നതാണ് Nithin Kurian COO Knoin Electronics Ok Siddharth Maturi CEO Knoin Electronics സ്കൂളിൽ പോകുന്ന കുട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി നോട്സ് എഴുത്തുകളാണ് Nithin Kurian COO Knoin Electronics ശരിയാണ് Siddharth Maturi CEO Knoin Electronics ഒക്കെ നമുക്ക് ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് അവൻ എങ്ങനെയാണ് നോട്ട് എഴുതുക എന്നകാര്യം ചിന്തിക്കാവുന്നതാണ് Nithin Kurian COO Knoin Electronics അതേ സാമുമായി ബന്ധപ്പെട്ട ചിന്തിക്കുമ്പോൾനമ്മൾ ആദ്യം ബന്ധപ്പെടുത്തുന്ന ആക്ടിവിറ്റി നോട്ട് എഴുതുക എന്നുള്ളതാണ് Siddharth Maturi CEO Knoin Electronics അതെ Nithin Kurian COO Knoin Electronics അതെ നമുക്ക് ആക്ടിവിറ്റി ആയി ബന്ധപ്പെട്ട മൂന്നു വ്യത്യസ്തങ്ങളായ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം Siddharth Maturi CEO Knoin Electronics അതെ അത് ശരിയാണ് Nithin Kurian COO Knoin Electronics ആ ആക്ടിവിറ്റിയുടെ മുമ്പ് സാം എന്തു ചെയ്തു ആക്ടിവിറ്റിയുടെ ഇടയിൽ സാം എന്തു ചെയ്തു ആക്ടിവിറ്റി അവസാനിച്ചിട്ട് സാം എന്തു ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് Shyam Paul M ക്ലാസിൽ സാം ആദ്യം ബാഗ് ഓപ്പൺ ചെയ്യുന്നതാണ് എന്നിട്ട് നോട്സ് എടുക്കും Nithin Kurian COO Knoin Electronics ചില ആക്ടിവിറ്റികൾ നോട്ട് എടുക്കുന്നതിനു മുന്നേ തന്നെ ക്ലാസ്സ് സംഭവിക്കും ടീച്ചർ ക്ലാസിലേക്ക് വരും എന്നിട്ട് കുട്ടികളുടെ അടുത്ത് നോട്ട്ബുക്ക് എടുക്കാൻ ആവശ്യപ്പെടും കൂടാതെ ടെസ്റ്റ് ബുക്ക് ആവശ്യപ്പെടും നോട്ട് ബുക്ക് ടെസ്റ്റ് ബുക്ക് എന്നിവ എടുത്തു വച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും Siddharth Maturi CEO Knoin Electronics അങ്ങനെ സാം എന്താണ് ടീച്ചർ പഠിപ്പിക്കുന്നത് എന്ന് കേൾക്കും എന്നിട്ട് നോട്ട്ബുക്കിൽ നോട്ട് എഴുതാൻ ആരംഭിക്കും Nithin Kurian COO Knoin Electronics നോട്ട്ബുക്കിൽ Suprativ Das CTO Knoin Electronics ആക്ടിവിറ്റിആരംഭിക്കുന്നതിനു മുൻപ് തന്നെ ടീച്ചറുടെ profile മനസ്സിലാക്കണം പ്രധാനപ്പെട്ട കാര്യമാണ് ടീച്ചർ ഏതു വിഷയം പഠിപ്പിക്കുന്ന ടീച്ചർ ആണ് എന്ന കാര്യം ഒരു പക്ഷേ ടീച്ചർ സയൻസ് ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ മാക്സ് ആയിരിക്കും Nithin Kurian COO Knoin Electronics അവനൊരു ആക്ടിവിറ്റിചെയ്യുകയായിരിക്കും Suprativ Das CTO Knoin Electronics വിഷയം Nithin Kurian COO Knoin Electronics ഏതാണ് ടോപ്പിക്ക് എന്നുള്ള കാര്യം എഴുതുന്ന നോട്ടിനെ സ്വാധീനിക്കുന്ന കാര്യമാണ് Suprativ Das CTO Knoin Electronics തീർച്ചയായും Siddharth Maturi CEO Knoin Electronics പക്ഷേ ലാംഗ്വേജ് ക്ലാസ്സിൽ കൂടുതൽ പഠിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും പോയട്രി ടെസ്റ്റ് ബുക്ക് അത്തരത്തിലുള്ള ടെസ്റ്റ് ബുക്കുകൾ കണക്ക് ക്ലാസ്സിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നോട്ട്ബുക്ക് ആയിരിക്കും Nithin Kurian COO Knoin Electronics പക്ഷേ ലാംഗ്വേജ് ക്ലാസുകളിൽ കുട്ടികൾ ടെസ്റ്റിൽ എഴുതുന്നത് ഞാൻ കണ്ടിരിക്കുന്നു ഒരു പദ്യം പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ ടെസ്റ്റിൽ തന്നെ നോട്ട് എഴുതാറുണ്ട് എന്നാൽ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ കുട്ടികൾ നോട്ട്ബുക്കിൽ തന്നെയാണ് എഴുതുന്നത് ടെസ്റ്റ് ബുക്കിൽ എഴുതുന്നില്ല പ്രധാനപ്പെട്ട പോയിൻറ് ആണ് Siddharth Maturi CEO Knoin Electronics വിഷയം ആയി ബന്ധപ്പെട്ടിരിക്കുന്നു Nithin Kurian COO Knoin Electronics വിഷയം ആയി ബന്ധപ്പെട്ടിരിക്കുന്നു Siddharth Maturi CEO Knoin Electronics ആക്ടിവിറ്റി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്നതാണ് Nithin Kurian COO Knoin Electronics ഇതൊക്കെ സംഭവിച്ച ആക്ടിവിറ്റി കൾ ആയിരിക്കും Siddharth Maturi CEO Knoin Electronics അത് ആക്ടിവിറ്റി ആരംഭിക്കുന്നത് മുന്നേ തന്നെ ഉള്ള ടാസ്ക് ലിസ്റ്റ് Siddharth Maturi CEO Knoin Electronics നമുക്കിനി ആക്ടിവിറ്റി സംഭവിക്കുമ്പോൾ എന്തൊക്കെ നടക്കുന്നു എന്ന് പരിശോധിക്കാവുന്നതാണ് Professor ഒരു ആക്ടിവിറ്റി ഒരു നോട്ട് എഴുതുക ഇവിടെ നിങ്ങൾക്ക് 4 ആക്ടിവിറ്റി ഉണ്ട് 4 Notes ഉണ്ട് ഒരു കഥ പോലെ എഴുതുക സംഭവിച്ചു അത് സംഭവിച്ചത് അങ്ങനെ അങ്ങനെ എഴുതിയത് കൊണ്ട് ഗുണം ചെയ്യും ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നതാണ് Siddharth Maturi CEO Knoin Electronics അതെ Professor മുമ്പ് എന്ന ടാഗ് വളരെ നല്ല ആശയമാണ് Nithin Kurian COO Knoin Electronics മാറ്റുവാൻ സാധിക്കും Siddharth Maturi CEO Knoin Electronics പിന്നെന്താണ് Nithin Kurian COO Knoin Electronics ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കുട്ടികൾ നോട്ട് ബുക്ക് എടുക്കുന്നു കുട്ടികൾ ബാഗിൽനിന്ന് ശരിക്കുമുള്ള ടെസ്റ്റ് ബുക്ക് എടുക്കുന്നു Siddharth Maturi CEO Knoin Electronics ബുക്ക് എടുക്കുന്നു Nithin Kurian COO Knoin Electronics ബാഗിൽനിന്ന്ബുക്ക് എടുക്കുന്നു അടുത്തത്ടീച്ചർ പഠിപ്പിക്കുകയാണ് Siddharth Maturi CEO Knoin Electronics നോട്ട് എഴുതി എടുക്കുന്നു Nithin Kurian COO Knoin Electronics ആ കുട്ടികൾവേണ്ട കാര്യങ്ങൾ ചുരുക്കി എഴുതുന്നു നോട്ട് എഴുതാൻ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങൾ കുട്ടികൾ സംഗ്രഹിക്കുന്നു എന്നിട്ടാണ് കുട്ടികൾ നോട്ട് എഴുതുവാൻ ആരംഭിക്കുന്നത് Nithin Kurian COO Knoin Electronics Perfect Siddharth Maturi CEO Knoin Electronics ശരി ക്ലാസിൽ നോട്ട് എഴുതി എടുക്കുവാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സാം എന്ന കുട്ടിനാല് സ്റ്റെപ്പുകൾ ചെയ്തു Nithin Kurian COO Knoin Electronics നമ്മളിപ്പോൾ ശരിയായ ട്രാക്കിൽ അല്ലെ Professor അതേ Nithin Kurian COO Knoin Electronics അതേ Siddharth Maturi CEO Knoin Electronics ഇനി നമുക്ക് ആക്ടിവിറ്റിയുടെഇടയിലേക്ക് പോകാവുന്നതാണ് എന്തായിരിക്കും ഒന്നാമത്തെ സ്റ്റെപ്പ് നോട്സ് എഴുതുമ്പോൾ എന്തായാലും സാം എന്ന കുട്ടി ചെയ്യുന്നത് ഒരു പക്ഷേ പെൻ എടുക്കുക ആയിരിക്കും Nithin Kurian COO Knoin Electronics എഴുതാൻ വേണ്ട ഉപകരണം വളരെ പ്രധാനപ്പെട്ടതാണ് Siddharth Maturi CEO Knoin Electronics നോട്ട് ബുക്ക് ഓപ്പൺ ചെയ്യണം പേന എടുക്കണം Student 4 നോട്ട്സ് എഴുതുക Suprativ Das CTO Knoin Electronics ഒരു കാര്യം കൂടി ഉണ്ട് ഒന്നാമത്തെ കാര്യം ബുക്ക് എടുക്കുക അല്ലെങ്കിൽ അതുപോലെ പേന എടുക്കുക സാംൻറെ കയ്യിൽ ഒരുപാട് നോട്ട് ബുക്ക് ഉണ്ട് ശരിയല്ലേ നോട്ട്ബുക്കുകൾ വിഷയങ്ങളുടെ ക്രമത്തിൽ ആയിരിക്കണമെന്നില്ല എടുത്തു വച്ചിരിക്കുന്നത് കണക്ക് ടീച്ചർ കണക്ക് സയൻസ് നോട്ട്ബുക്കിൽ എഴുതി കാണാൻ ആഗ്രഹിക്കുന്നില്ല Nithin Kurian COO Knoin Electronics സമ്മതിച്ചു Siddharth Maturi CEO Knoin Electronics ബാഗിൽനിന്ന് ബുക്ക് എടുക്കുക എന്നുള്ളത് നോട്ട് എഴുതുവാൻ ആരംഭിക്കുന്നതിന് മുമ്പുള്ളആക്ടിവിറ്റി ആണ് Nithin Kurian COO Knoin Electronics എഴുതുവാൻ ആരംഭിക്കുന്നതിന് മുമ്പ്ഒരു പ്രത്യേക നോട്ട്ബുക്ക് ഒരു ക്ലാസ്സിലേക്ക് വേണ്ടി എടുക്കണം Nithin Kurian COO Knoin Electronics Ok Professor ശരിക്കുമുള്ള നോട്ട്ബുക്ക് എടുക്കുന്നതിനു മുന്നേ 5 നോട്ട്ബുക്കുകൾ അല്ലെങ്കിൽ7 നോട്ടുബുക്കുകൾ അവൻറെ കയ്യിൽ പെട്ടു ഇരിക്കാം ശരിയായ ബുക്ക് എടുത്തിരിക്കണം Nithin Kurian COO Knoin Electronics Ok Professor നിങ്ങളുടെ ആത്യന്തികലക്ഷ്യം എങ്ങനെയാണ് എങ്ങനൊക്കെ നിങ്ങൾക്ക് സാംഎന്ന കുട്ടിയെ അവൻറെ ജീവിതത്തിൽ സഹായിക്കാൻ സാധിക്കും Nithin Kurian COO Knoin Electronics തീർച്ചയായും Siddharth Maturi CEO Knoin Electronics നമ്മൾ മറ്റുള്ള കാര്യങ്ങൾകൂടി പരിശോധിക്കണം Professor അതെ Nithin Kurian COO Knoin Electronics ഒന്നാമത്തെ ആക്ടിവിറ്റി പേന എടുക്കുക എന്നുള്ളതാണ് Siddharth Maturi CEO Knoin Electronics ഓപ്പൺ ചെയ്തിട്ട് പേനകൊണ്ട് എഴുതുക അതായിരിക്കും ആക്ടിവിറ്റിയുടെ ഇടയിലുള്ള അടുത്ത സ്റ്റെപ്പ് Nithin Kurian COO Knoin Electronics അടുത്തത്എഴുതിക്കൊണ്ടിരിക്കുന്നത് തുടരുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നേരത്തെ എഴുതിയത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് Siddharth Maturi CEO Knoin Electronics നമ്മൾ എവിടെയാണ് അവസാനിപ്പിച്ചത് എന്ന കാര്യം ടീച്ചർ ചോദിക്കുവാൻ സാധ്യതയുണ്ട് ആ സമയത്ത് സാംമുന്നോട്ടു വന്നിരിക്കാം നോക്കിയിട്ട് എവിടെയാണ് അവസാനിപ്പിച്ചത് എന്നകാര്യം ടീച്ചറോട് പറഞ്ഞിരിക്കാം Nithin Kurian COO Knoin Electronics ആ പുതിയ നോട്ട് എഴുതാം Siddharth Maturi CEO Knoin Electronics ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് വെരിഫിക്കേഷൻ Nithin Kurian COO Knoin Electronics അതെ Suprativ Das CTO Knoin Electronics Recap of the classes Siddharth Maturi CEO Knoin Electronics അത് ടീച്ചറുടെ ആക്ടിവിറ്റി ആണ് അത് കുട്ടിയുടെ ആക്ടിവിറ്റി ആയിട്ട് കണക്കുകൂട്ടാൻ പറ്റില്ല അതുകഴിഞ്ഞ് നോട്സ് വേരിഫിക്കേഷൻ ആണ് Nithin Kurian COO Knoin Electronics അടുത്ത കാര്യം ഒരു പുതിയ പേജ് ആരംഭിക്കും എന്നുള്ളതാണ് Siddharth Maturi CEO Knoin Electronics ഇപ്പോഴത്തെ നോട് ഒരു പുതിയ പേജിൽ ആയിരിക്കും എഴുതുക Nithin Kurian COO Knoin Electronics നെക്സ്റ്റ് ലൈൻ നെസ്റ്റ് നോട്സ് Siddharth Maturi CEO Knoin Electronics അടുത്ത നോട്ട് എഴുതാൻ ഒരു പുതിയ പേജ് സെലക്ട് ചെയ്യുന്നു Nithin Kurian COO Knoin Electronics അത് വളരെ നന്നായിരിക്കും ഒരു ആക്ടിവിറ്റി ആയിരിക്കും പഴയ പേജ് നോക്കിയിട്ട് ഒരു പുതിയ പേജ് സെലക്ട് ചെയ്യുന്നു Siddharth Maturi CEO Knoin Electronics അതെ ടീച്ചർ പഠിപ്പിക്കുന്ന ചാപ്റ്ററിന്അടിസ്ഥാനപ്പെടുത്തി ഇരിക്കുന്നു ഒരുപക്ഷേ ഒരു ഒരു ഡയഗ്രാം വരയ്ക്കുന്നത് ആയിരിക്കാം Nithin Kurian COO Knoin Electronics ശരിയാണ് Suprativ Das CTO Knoin Electronics ഗ്രാഫ് ആയിരിക്കാം Siddharth Maturi CEO Knoin Electronics ഗ്രാഫ് ആണോ അതോ സാധാരണ നോട്ട് ആണ് എന്നുള്ള കാര്യം ചാപ്റ്റർഎന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കുന്നു Siddharth Maturi CEO Knoin Electronics നോട്സ് എഴുതി എടുക്കുന്ന സമയത്ത് ഉള്ള നാല് ആക്ടിവിറ്റീസ് കിട്ടിക്കഴിഞ്ഞു Professor ശരിയാണ് Siddharth Maturi CEO Knoin Electronics ഇനി നമുക്ക് ആഫ്റ്റർ സെക്ഷൻ എന്നതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് വേണ്ടത് നോട്സ് എഴുതിയിട്ട് എന്തൊക്കെ ചെയ്തു Nithin Kurian COO Knoin Electronics ടീച്ചറുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞിരിക്കാം സാം വിചാരിക്കാം തൻറെ നോട്സ് എഴുതി എടുക്കുന്നത് മതിയാക്കാം എന്നുള്ള കാര്യം Siddharth Maturi CEO Knoin Electronics ടീച്ചർനോട്സ് എഴുതുന്നത് മതിയാക്കാം ആവശ്യപ്പെട്ടേക്കാം Nithin Kurian COO Knoin Electronics ടീച്ചർക്ലാസ്സ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇരിക്കാം അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക്കായി മനസ്സിലാക്കി ഇരിക്കാം ടീച്ചർ ക്ലാസ് അവസാനിച്ചു എന്നുള്ള കാര്യം Siddharth Maturi CEO Knoin Electronics ശേഷം എഴുതിയ Notes കളുടെവെരിഫിക്കേഷൻ ആയിരിക്കാം Nithin Kurian COO Knoin Electronics എന്താണ് എഴുതിയത് അതിൻറെ വെരിഫിക്കേഷൻ Suprativ Das CTO Knoin Electronics അവൻ ആഗ്രഹിക്കുന്നു ഉണ്ടാവാം Siddharth Maturi CEO Knoin Electronics അവൻറെ നോട്സ്ലൂടെപോകുമ്പോൾ വളരെയധികം നന്നായി എഴുതിയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും ഡയഗ്രാം ഒക്കെ നന്നായി വരച്ചിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും Suprativ Das CTO Knoin Electronics പക്ഷേ മറ്റുള്ളവരും ആയിരിക്കാം Professor സ്വന്തം അനുഭവം Siddharth Maturi CEO Knoin Electronics ഞാൻ ഇഷ്ടപ്പെടുന്നു Nithin Kurian COO Knoin Electronics ആക്ടിവിറ്റി ആയി കരുതാം Professor ആദ്യത്തെ കാര്യം നിങ്ങളുടെ എക്സ്പീരിയൻസ്ച് ഉപയോഗിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക എന്നതാണ് അതിനുശേഷം നിങ്ങളെന്താണ് നിരീക്ഷിച്ചത് രേഖപ്പെടുത്തുക അടുത്തത് മാർക്കറ്റിലേക്ക് പോവുക target segment ന്കാണുക എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഈ വക കാര്യങ്ങൾആവശ്യമായ മാറ്റം ഉണ്ടാകും Nithin Kurian COO Knoin Electronics ശരിയാണ് Siddharth Maturi CEO Knoin Electronics ഒക്കെ ശരിയാണ് ആ നോട്സ് വെരിഫൈ ചെയ്യുകയായിരിക്കും ഒരുപക്ഷേ കോസ്റ്റ് ചെക്കിങ് നടത്തുകയായിരുന്നു Shyam Paul M പ്രധാനപ്പെട്ട പോയിൻറ് അടിയിൽ വരയ്ക്കുക ആയിരിക്കും Nithin Kurian COO Knoin Electronics അങ്ങനെ തന്നെ ആയിരിക്കും Siddharth Maturi CEO Knoin Electronics സ്റ്റെപ്പ് 2 Nithin Kurian COO Knoin Electronics നമ്മൾ GUESS ചെയ്യണം Suprativ Das CTO Knoin Electronics അനന്തരഫലങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാം വസ്തുക്കളും ബാഗിൽഇടാം അല്ലെങ്കിൽ നോട്സ് മറ്റു വല്ലവർക്കും കൊടുക്കാവുന്നതാണ് വളരെ മെല്ലെ എഴുതുന്ന ആളുകൾ ചില ടോപിക്സ് വിട്ടു പോകാൻ സാധ്യതയുണ്ട് അത് മുഴുവനായി എഴുതാൻ മറ്റുള്ളവരുടെ സഹായം തേടാവുന്നതാണ് Nithin Kurian COO Knoin Electronics ഒക്കെ ശരിയാണ് അയാളും നല്ല വേഗതയിൽഎഴുതുന്ന ആളാണെങ്കിൽ അയാളുടെ notes വേഗതയിൽഎഴുതാത്ത ആൾക്ക് കൊടുക്കാവുന്നതാണ് Siddharth Maturi CEO Knoin Electronics നോട്സ് ഷെയർ ചെയ്യാം Nithin Kurian COO Knoin Electronics വിചാരിക്കുന്നു രണ്ടു സാധ്യതകളുണ്ട് Siddharth Maturi CEO Knoin Electronics Notes ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം Nithin Kurian COO Knoin Electronics നോട്ട്ബുക്ക്ബാഗിൽ വെക്കാം Suprativ Das CTO Knoin Electronics അസൈമെൻറ് ടീച്ചർ കൊടുക്കുന്നത് ഒരു ഒരു പോസ്റ്റ് ആക്ടിവിറ്റി ആയി എടുക്കാവുന്നതാണ് Nithin Kurian COO Knoin Electronics അങ്ങനെ വരുമ്പോൾ ആക്ടിവിറ്റിയിൽ മാറ്റം വരും എന്ന് വിചാരിക്കുന്നു Professor അതെ അസൈമെൻറ്ഇല്ലാത്ത സാഹചര്യത്തിൽ നോട്സ് എഴുതിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ കാര്യമാണ് അസൈമെൻറ്ഉണ്ടെങ്കിൽ Notes എഴുതി എടുക്കുന്നത് മറ്റൊരുകാര്യം ആയിരിക്കും തീർച്ചയായും അങ്ങനെ വരുമ്പോൾ ആക്ടിവിറ്റിയിൽ മാറ്റം വരും എന്ന് വിചാരിക്കുന്നു അവസാനത്തെ കാര്യം നിങ്ങളുടെ വിദ്യാർത്ഥിയുടെ ഇമോഷണൽസ്റ്റാറ്റസ് നിങ്ങൾ മനസ്സിലാക്കണം ഏത് സമയത്ത് സന്തോഷമായി ഏത് സമയത്താണ് വിഷമം ഉണ്ടായത് ഇങ്ങനുള്ള കാര്യങ്ങൾ Nithin Kurian COO Knoin Electronics ടീച്ചർ ക്ലാസിലേക്ക് വരുന്ന ഒരു smileyആയിരിക്കാം Professor ക്ഷമിക്കണം Siddharth Maturi CEO Knoin Electronics എഴുതുവാൻ ഇഷ്ടമാണ് Nithin Kurian COO Knoin Electronics എഴുതുവാൻ ഇഷ്ടമാണ് ക്ലാസ്സിൽ എഴുതാനും പഠിക്കാനും ഇഷ്ടമാണ് ആണ് അതാണ് ശരിക്കുള്ള സാഹചര്യം Nithin Kurian COO Knoin Electronics ഐഡിയൽസിറ്റുവേഷൻ നാം മാപ്പ് ചെയ്യണം Siddharth Maturi CEO Knoin Electronics സാം ഹാപ്പിയാണ് Suprativ Das CTO Knoin Electronics great Siddharth Maturi CEO Knoin Electronics ടീച്ചർ വന്നിട്ട് ബുക്ക് എടുക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ കുട്ടി മനസ്സിലാക്കി കാണും ഇത് ഒരു ഒരു free ക്ലാസ്സ് അല്ല എന്ന എന്ന കാര്യം Nithin Kurian COO Knoin Electronics ഒരു സാഡ് ഇമോജി ആണ് കൊടുക്കേണ്ടത് Shyam Paul M അവൻ നോട്സ് എഴുതി എടുക്കുക ആയിരിക്കും Suprativ Das CTO Knoin Electronics Moderate ഇമോജി ശരിയല്ലേ Suprativ Das CTO Knoin Electronics സാംസന്തോഷവാൻ ആയിരിക്കില്ല Nithin Kurian COO Knoin Electronics വളരെ സന്തോഷവാൻ ആയിരിക്കില്ല Suprativ Das CTO Knoin Electronics ഇതെല്ലാം ചെയ്യുമ്പോൾ സാം സന്തോഷവാൻ ആയിരിക്കില്ല Nithin Kurian COO Knoin Electronics ടീച്ചർ പറയുമ്പോൾ മുഴുവൻ ശ്രദ്ധയോടെ കാര്യങ്ങൾ കേട്ടിരിക്കാൻ സാധിക്കില്ല Siddharth Maturi CEO Knoin Electronics ഓക്കേ സാം എന്ന കുട്ടിക്ക്കൺഫ്യൂഷൻ ഉണ്ടോ Professor ഒരു exclamation ചിഹ്നം അല്ലെങ്കിൽ ഒരു ചോദ്യ ചിഹ്നം Siddharth Maturi CEO Knoin Electronics ടീച്ചർ പഠിപ്പിക്കാൻ ആരംഭിക്കുന്നു Nithin Kurian COO Knoin Electronics അതൊരു സാധാരണ കാര്യം പോലെയാണ് Professor Ok Siddharth Maturi CEO Knoin Electronics എഴുതേണ്ട കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നു Nithin Kurian COO Knoin Electronics അതൊരു ബുദ്ധിമുട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കും Siddharth Maturi CEO Knoin Electronics അവൻറെ മുഖത്ത് സന്തോഷം ആണെന്ന് കണ്ടു കഴിഞ്ഞു Nithin Kurian COO Knoin Electronics ശരിയാണ് Siddharth Maturi CEO Knoin Electronics ഈ ഇമോഷൻആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്താണ് ഇമോഷൻ എന്ന് മനസ്സിലാക്കണം ഞാൻ വിചാരിക്കുന്നു യാതൊരു ഇമോഷൻ ഇല്ല Nithin Kurian COO Knoin Electronics ടീച്ചർ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഒരു മുഷിപ്പ്ഉണ്ടാക്കാവുന്നതാണ് Suprativ Das CTO Knoin Electronics അപ്പോൾ അധികം സന്തോഷം ഉണ്ടാവില്ല Siddharth Maturi CEO Knoin Electronics എഴുതുന്നതിനുവേണ്ടി ഒരു പേജ് തെരഞ്ഞെടുക്കുന്നു Nithin Kurian COO Knoin Electronics ശരി Suprativ Das CTO Knoin Electronics യാതൊരു ഇമോഷനുംഇല്ല Siddharth Maturi CEO Knoin Electronics ഡയഗ്രാം വരയ്ക്കുന്നത് കാര്യം ആയാലും എഴുതുന്നകാര്യം തിരഞ്ഞെടുക്കുന്നത് ആയാലും സന്തോഷമായിരിക്കും Nithin Kurian COO Knoin Electronics നോട്ട് എഴുതി എടുക്കുന്നതിൽ അവൻ സന്തോഷവാനാണ് Nithin Kurian COO Knoin Electronics അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അവൻ Siddharth Maturi CEO Knoin Electronics ആക്ടിവിറ്റിയുടെ ഇടയിലുംശേഷവും അവൻറെ ഇമോഷൻ അതാണ് Suprativ Das CTO Knoin Electronics വളരെ സന്തോഷവാനായിരിക്കും Nithin Kurian COO Knoin Electronics അല്ല ടീച്ചർ ക്ലാസിലേക്ക് വന്നപ്പോഴാണ് ആ കുട്ടി സന്തോഷവാൻ ആയത് Siddharth Maturi CEO Knoin Electronics അവൻ എഴുതാനും വരയ്ക്കാനും ഇഷ്ടപ്പെടുന്ന ഐഡിയൽ സ്റ്റുഡൻറ് ആയിരിക്കാം Suprativ Das CTO Knoin Electronics സന്തോഷവാനാണ് Nithin Kurian COO Knoin Electronics അല്ല അവൻ ദുഃഖിതൻ ആയിരിക്കും Siddharth Maturi CEO Knoin Electronics Notes ഷെയർ ചെയ്യുന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് Nithin Kurian COO Knoin Electronics നോട്ടുകൾ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായുംസന്തോഷമുണ്ടാകും Siddharth Maturi CEO Knoin Electronics വീണ്ടും സന്തോഷം ഉണ്ടാകുന്നു Professor വളരെ നന്നായിരിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽനിന്ന്നിങ്ങൾ ഭാവനയിൽ കണ്ടതാണോ ശരിക്കും ഉള്ളത്എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾ ചെയ്ത ഇമോഷൻ മാപ്പിംഗ് ചില സമയത്ത് empathy mapഎന്ന് വിളിക്കുന്നു ഐഡിയല് സ്റ്റുഡൻറ് ഏതാണെന്ന് ടീച്ചറോട് ചോദിക്കുക അവനെ നിരീക്ഷിക്കുക ഒരു വ്യക്തിത്വം കൂടി സൃഷ്ടിച്ചെടുത്തരിക്കുന്നു നമ്മുടെ ചർച്ചആയിരുന്നു ഞാൻ മിസ് Avni's ഓഫീസിലേക്കുള്ള യാത്ര വികസിപ്പിച്ചെടുത്ത പോലെ